ക്രോമാറ്റിക്സ് ഓൾഫാക്റ്റിക്സ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് പ്രിയപ്പെട്ട പങ്കാളികളെ നാലാമത്തെ ആഴ്ചയിലെ മൂന്നാം മൊഡ്യൂളിലേക്ക് സ്വാഗതം ഈ മൊഡ്യൂളിൽ ക്രോമാറ്റിക്സ് ആദ്യകാല ഗവേഷകരുടെയോ പ്രാരംഭ ചർച്ചകളിൽ അവ ഉൾപ്പെടുത്തിയിട്ടില്ല വ്യത്യസ്ത നിറങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് ക്രോമാറ്റിക്സ് നമ്മുടെ വിഷ്വൽ സെൻസ് നമ്മൾ സജീവമായ രീതിയിലും നിഷ്ക്രിയമായ രീതിയിലും ഉപയോഗിക്കുന്നു നിറങ്ങളിലൂടെയുള്ള സന്ദേശങ്ങളുടെ ആശയവിനിമയമാണ് ക്രോമാറ്റിക്സ് നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഒരു സുപ്രധാന വശമാണിത് എന്നിട്ടും ഈ മേഖലയിൽ കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടില്ല നമ്മുടെ വിഷ്വൽ സെൻസ് സജീവമായും നിഷ്ക്രിയമായും ഉപയോഗിക്കാൻ കഴിയും അതിനാൽ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ മറ്റെല്ലാ വശങ്ങളെയും പോലെ ഇത് ഉടനടി ഉപബോധമനസ്സിൽ പ്രതികരിക്കുന്നു നിറങ്ങൾക്ക് സാംസ്കാരിക അർത്ഥമുണ്ട് അവ വ്യത്യസ്ത സംസ്കാരങ്ങളിലെ വ്യത്യസ്ത സ്വഭാവങ്ങളെയും ധാരണകളെയും പ്രതിനിധീകരിക്കുന്നു ഒരു പ്രത്യേക സംസ്കാരത്തിൽ ഒരു നിറത്തിന് ഒരു പ്രത്യേക അർത്ഥമുണ്ടാകാം എന്നാൽ മറ്റ് സംസ്കാരത്തിൽ ഇതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ടാകാം ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ കറുപ്പ് എന്നത് വിലാപത്തിന്റെ നിറമാണ് എന്നാൽ മറ്റ് ചില സംസ്കാരങ്ങളിൽ ഇതുപോലുള്ള നിർഭാഗ്യകരമായ അവസരങ്ങളിൽ വെളുത്ത നിറം ഉചിതമാണെന്ന് കണക്കാക്കപ്പെടുന്നു പരസ്പര ആശയവിനിമയത്തിൻറെയും ബിസിനസ് ആശയവിനിമയത്തിന്റെയും പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കണ്ടെത്തലുകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന് രണ്ട് വഴികളുണ്ടാകാം പ്രാഥമികമായി നമ്മുടെ ചുറ്റുപാടുകളിലും ഒരു സ്ഥലത്തിന്റെ രൂപകൽപ്പനയിലും നമ്മൾ നിറങ്ങൾ നോക്കുന്നു ഉദാഹരണത്തിന് ഓഫീസ് സ്ഥലം നിറത്തിന്റെ പങ്ക് പ്രധാനമാണ് അതിനാൽ ബിസിനസ്സ് പ്രൊഫഷണൽ ലോകത്ത് നിറങ്ങൾക്ക് ഒരു നിശ്ചിത ശക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും മാർക്കറ്റിംഗിൽ ഇത് പ്രത്യേകിച്ചും ദൃശ്യമാണ് അവിടെ ഒരു ബ്രാൻഡിന്റെ ലോഗോയും വിഷ്വൽ ഐഡന്റിറ്റിയും അവതരിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം പ്രബലമാകും നമ്മൾ ഒരു ബ്രാൻഡിന്റെ ലോഗോ നോക്കുമ്പോൾ പോലും വ്യത്യസ്ത തരം വിഷ്വൽ സൂചകങ്ങൾ ആകൃതികൾ അക്കങ്ങൾ ചില പദങ്ങൾ എന്നിവയുണ്ടാകും എന്നാൽ ആത്യന്തികമായി വേറിട്ടുനിൽക്കുന്നത് നമ്മൾ സാധാരണയായി ഓർമ്മിക്കുന്നത് നിറമാണ് ഒപ്പം നിറത്തിന്റെ ഉപയോഗം 80 ശതമാനം വരെ ബ്രാൻഡ് തിരിച്ചറിയൽ വർദ്ധിപ്പിക്കുന്നു പ്രായോഗിക തലത്തിൽ ഒരു ബ്രാൻഡിലെ വർണ്ണത്തിന്റെ സമർത്ഥവും നന്നായി ചിന്തിക്കുന്നതുമായ ഉപയോഗം ഒരു ജനക്കൂട്ടത്തിൽ വേറിട്ടുനിൽക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ബ്രാൻഡും വർണ്ണവും തമ്മിലുള്ള ബന്ധം ഒരു സാഹചര്യത്തിന് കൃത്യമായി യോജിക്കുന്ന നിറത്തിന്റെ അനുയോജ്യതയെ ആശ്രയിച്ചിരിക്കുന്നു മാർക്കറ്റിംഗിന് നിറങ്ങൾ മാത്രമല്ല പ്രധാനം പക്ഷേ ഇത് നമ്മുടെ വസ്ത്രത്തിൽ ആക്സസറികൾ തിരഞ്ഞെടുക്കുന്നതിൽ സമ്മാനങ്ങൾ പാക്കേജുചെയ്യുന്ന രീതിയിൽ ഇവയിലൊക്കെ കാണാൻ കഴിയും സന്ദേശങ്ങൾ കൈമാറുന്നത് അറിവോട് കൂടിയാണ് പക്ഷേ മിക്കവാറും അവ ഉദ്ദേശിക്കാത്ത അർത്ഥം കൈമാറുന്നു ഇവിടെ ക്രോസ് കൾച്ചറൽ പ്രാധാന്യവും മനസ്സിലാക്കേണ്ടതുണ്ട് അതേസമയം വർണ്ണങ്ങൾ ഒരു ഓർഗനൈസേഷനിലെ ഔദ്യോഗിക സംസ്കാരത്തെയും ചില വർണ്ണങ്ങളുടെ സഹായത്തോടെ സൃഷ്ടിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് ഐഡന്റിറ്റിയെയും സ്വാധീനിക്കുന്നതായി നമുക്ക് കാണാം അമേരിക്കൻ ഐക്യനാടുകളിലെ ബിസിനസ് പാക്കേജിംഗിലെ വർണ്ണത്തിന്റെ സാംസ്കാരിക അസോസിയേഷനുകളെക്കുറിച്ച് നതാലി ബോയ്ഡ് അഭിപ്രായപ്പെട്ടു ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ ഊഷ്മള നിറങ്ങൾ ഉത്കണ്ഠ വിശപ്പ് ഉത്തേജനം എന്നിവ വർദ്ധിപ്പിക്കുന്നു അതിനാൽ ഫാസ്റ്റ്ഫുഡ് ശൃംഖലകൾ പലപ്പോഴും ചുവപ്പ് മഞ്ഞ എന്നിവയുടെ വർണ്ണ കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കുന്നു കാരണം ഈ നിറങ്ങൾ വിശപ്പ് വർദ്ധിപ്പിക്കുന്നു മറുവശത്ത് തണുത്ത നിറങ്ങൾ ശാന്തമായ ഒരു പ്രഭാവം ഉണ്ടാക്കുന്നു അവ ചിന്തയെ ഉത്തേജിപ്പിക്കുന്നു അതിനാൽ റെസ്റ്റോറന്റുകളുടെ ഇന്റീരിയർ ഡെക്കറേഷനിൽ അവയ്ക്കു മുൻഗണന നൽകുന്നു നമ്മുടെ വർണ്ണ തിരഞ്ഞെടുപ്പ് മറ്റ് ആളുകളോടുള്ള നമ്മുടെ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു അതേസമയം നമ്മുടെ ചുറ്റുപാടുകളിലെ വർണ്ണ തിരഞ്ഞെടുപ്പ് നമ്മുടെ മാനസികാവസ്ഥയെയും സ്വാധീനിക്കുന്നു നമ്മുടെ ചുറ്റുപാടിൽ സൌന്ദര്യാത്മകമായി വർണ്ണിക്കുന്ന വർണ്ണങ്ങളുടെ ഉപയോഗം ജോലിസ്ഥലത്ത് നമ്മിൽ ഒരു നല്ല ഉത്തേജനം സൃഷ്ടിക്കുന്നു മാത്രമല്ല ഔദ്യോഗിക ഇടപെടലുകളിൽ നമ്മുടെ ശ്രദ്ധ നിലനിർത്താൻ അവ സഹായിക്കുന്നു അപര്യാപ്തമായ നിറങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ജീവനക്കാരെ കണ്ണിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തലവേദന സൃഷ്ടിക്കുന്നതിലൂടെ ബാധിച്ചേക്കാം മാത്രമല്ല ഇത് തളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കളർ സൈക്കോളജിസ്റ്റായ വളരെ രസകരമായ ഒരു കണ്ടെത്തലിനെക്കുറിച്ചും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു തന്റെ ഗവേഷണത്തിൽ 80 ശതമാനം ജീവനക്കാരും തങ്ങളുടെ ചുറ്റുപാടുകളുടെ നിറം അവരുടെ വികാരങ്ങളിലും പ്രകടനത്തിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് വിശ്വസിക്കുന്നു ജീവനക്കാർക്കിടയിൽ പോസിറ്റീവ് വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന നിറങ്ങളുടെ ആസൂത്രിതമായ ഉപയോഗം അവരെ മികച്ച സർഗ്ഗാത്മകതയിലേക്കും നൂതന ആശയങ്ങളിലേക്കും നയിക്കുന്നു നിറങ്ങൾക്ക് ഒരു മനശാസ്ത്രപരമായ ബന്ധമുണ്ടെന്നും അവയ്ക്ക് ഒരു പ്രത്യേക ആശയവിനിമയ മൂല്യമുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പ്രകടനം നടത്തുന്നവർക്ക് ഒരു പച്ച മുറിയിൽ കൂടുതൽ ശാന്തത തോന്നുന്നു ഒപ്പം വെയ്റ്റ് ലിഫ്റ്ററുകൾ നീല നിറമുള്ള ജിമ്മുകളിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു എന്നാൽ പ്രൊഫഷണൽ ലോകത്ത് ഇതിനപ്പുറം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്ന വ്യത്യസ്ത ആക്സസറികളിലൂടെയുള്ള നിറങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ വ്യക്തിത്വവും മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവവും സൂചിപ്പിക്കുന്നത് ജോലിസ്ഥലത്ത് ശരിയായ ഷേഡുകൾ ധരിക്കുന്നത് പ്രധാനമാണെന്ന് വ്യത്യസ്ത വർണ്ണ മനശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടു കാരണം ഇത് സഹപ്രവർത്തകരിലും മേലധികാരികളിലും ഒരു പ്രത്യേക സ്വാധീനം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഒപ്പം നമ്മുടെ കരിയർ അവസരങ്ങളും വർദ്ധിപ്പിക്കാനും കഴിയും ഈ കണ്ടെത്തൽ അടുത്ത ലോജിക്കൽ ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് പ്രൊഫഷണൽ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ നിറങ്ങൾ ഇരുണ്ട നിറം അധികാരബോധം നൽകുന്നു അതേസമയം ലൈറ്റ് ഷേഡുകൾ സമീപിക്കാവുന്ന ഒരു ഇമേജ് പ്രൊജക്റ്റ് ചെയ്യുന്നു ഈ നിർദ്ദേശത്തിൽ വ്യത്യസ്ത കണ്ടെത്തലുകൾ ഏതാണ്ട് ഏകകണ്ഠമാണ് എല്ലാ ലിംഗഭേദങ്ങൾക്കും പ്രൊഫഷണൽ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ നിറം കറുപ്പ് അല്ലെങ്കിൽ നേവി നീലയാണ് ചില മനശാസ്ത്രജ്ഞർ ചാരനിറവും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഭൂരിപക്ഷവും കറുപ്പ് അല്ലെങ്കിൽ നേവി നീലയ്ക്ക് അനുകൂലമാണ് ഈ നിറങ്ങൾ അധികാരം ശക്തി തുടങ്ങിയ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് പ്രത്യേകിച്ചും ആക്രമണാത്മകതയുമായി അല്ലെങ്കിൽ ഉറച്ച നിലപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു യൂണിഫോമിനായി തിരഞ്ഞെടുത്ത നിറവും ജീവനക്കാരുടെ പെരുമാറ്റവും ഒരു പ്രത്യേക നിറത്തിൽ വസ്ത്രം ധരിച്ച ഒരു ജീവനക്കാരനോടുള്ള ഉപഭോക്താവിന്റെ പെരുമാറ്റവും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ടെന്ന് ഗവേഷണങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നു വ്യവസായങ്ങൾ എല്ലായ്പ്പോഴും ഈ ഗവേഷണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു വ്യത്യസ്ത വ്യവസായങ്ങൾക്ക് വ്യത്യസ്ത ലക്ഷ്യങ്ങളും സന്ദേശങ്ങളുമുണ്ട് അവ കൈമാറാനും നിറവേറ്റാനും ആഗ്രഹിക്കുന്നു അവർക്ക് വ്യത്യസ്ത ബ്രാൻഡ് ഇമേജുകളും ഉണ്ട് ഒരു പ്രത്യേക ഓർഗനൈസേഷനിൽ പോലും വ്യത്യസ്ത സെഗ്മെന്റുകൾ വ്യത്യസ്ത തരം ചുമതലകൾ നിർവഹിക്കുന്നതായി നമുക്ക് കാണാം അതിനാൽ ജോലിസ്ഥലത്ത് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു പെരുമാറുന്നു അവരുടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്നതിലെ ഉപബോധമനസ്സും ആഴത്തിൽ വേരൂന്നിയതുമായ വൈകാരിക പ്രതികരണങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ കളർ സൈക്കോളജിയുടെ സപ്ലിമിനൽ ഇഫക്റ്റ് ഉപയോഗിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ശരിയായി ഉപയോഗിച്ചാൽ ജോലിസ്ഥലത്ത് കാര്യക്ഷമതയും പോസിറ്റിവിറ്റിയും നൽകുന്നതിന് നിറങ്ങൾക്ക് കഴിവുണ്ട് 1999 ൽ നടത്തിയ ക്രൈറ്റൺ സർവകലാശാലയിൽ നടത്തിയ പഠനത്തിൽ നീല നിറത്തിൻറെവ്യത്യസ്ത ഷേഡുകളിലുള്ള യൂണിഫോം ധരിച്ച ജീവനക്കാർക്ക് ശാന്തത അനുഭവപ്പെടുന്നതായും അവരുടെ പ്രൊഫഷണൽ റോളുകളെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും കൂടുതൽ പ്രതീക്ഷ ഉണ്ടെന്നും കണ്ടെത്തി ഏകീകൃത വർണ്ണങ്ങളുടെ തിരഞ്ഞെടുപ്പ് സന്ദേശങ്ങളുടെ പ്രത്യേക സെറ്റ് ഉപബോധമനസ്സുകളെ അറിയിക്കുന്നു ഉദാഹരണത്തിന് മെഡിക്കൽ സ്റ്റാഫ് ഡോക്ടർമാർ ലാബ് തൊഴിലാളികൾ എല്ലായ്പ്പോഴും വെളുത്ത വസ്ത്രം ധരിക്കുന്നു കാരണം ഇത് വിശുദ്ധിയുടെ നിറം ആണ് ഒപ്പം ശുചിത്വത്തിന്റെയും വന്ധ്യതയുടെയും കൂട്ടായ്മകൾ ഉളവാക്കുന്നു മക്ഡൊണാൾഡ് മഞ്ഞയും ചുവപ്പും സംയോജനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചുവപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശത്തിന്റെ അനുബന്ധ സ്വഭാവവിശേഷങ്ങൾ പകർത്താൻ ഉപയോഗിക്കുന്നു കൂടാതെ പരമ്പരാഗതമായി മഞ്ഞയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഊഷ്മളതയുടെയും സന്തോഷത്തിന്റെയും വികാരങ്ങൾ ഇതിലൂടെ അറിയിച്ചു ഈ അസോസിയേഷനുകളെ ഗവേഷണങ്ങളും പിന്തുണച്ചിട്ടുണ്ട് ഈ ചാർട്ട് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള സാധാരണ അസോസിയേഷനുകൾ പ്രദർശിപ്പിക്കുന്നു ഇവ പൊതുവായ ധാരണകൾ മാത്രമല്ല ശാസ്ത്രീയ ഗവേഷണങ്ങളും പിന്തുണയ്ക്കുന്നു എന്നിരുന്നാലും ഈ ചാർട്ട് പ്രബലമായ ധാരണകളും ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ കണ്ടെത്തലുകളും പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്ത നിറങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതിയിൽ സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ട് ഈ സാംസ്കാരിക വ്യതിയാനങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ചുവപ്പ് നിറത്തിന് ചൈനയിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യസ്ത ബന്ധങ്ങളുണ്ട് ഇത് ഭാഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ പല കൊറിയക്കാർക്കും ഇത് നിർഭാഗ്യത്തെ പ്രതീകപ്പെടുത്തുന്നു ഫ്രാൻസ് ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് പുല്ലിംഗ നിറമാണെന്ന് മനസ്സിലാക്കുന്നു ജപ്പാനിൽ ഇത് സന്തോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഘാനയിൽ ഇത് ദുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റ് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് മന്ത്രവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരണത്തെ പ്രതീകപ്പെടുത്തുന്നു അനുബന്ധ സാഹചര്യങ്ങളിൽ ചുവപ്പ് നിറത്തിൽ വസ്ത്രം ധരിച്ച ആളുകൾ കൂടുതൽ ആകർഷകമാണെന്ന് മനസ്സിലാക്കുന്നു എന്നിരുന്നാലും നേട്ടത്തിൻറെ അഥവാ വിജയത്തിൻറെ സാഹചര്യങ്ങളിൽ ചുവപ്പ് നെഗറ്റീവ് അല്ലെങ്കിൽ ഒഴിവാക്കൽ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കഴിവ് വിലയിരുത്തുന്ന ബൌദ്ധിക നേട്ട പശ്ചാത്തലത്തിൽ ചുവപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പച്ച വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിട്ടും ആളുകളുടെ ചുവപ്പ് നിറത്തിലുള്ള സാധാരണ അസോസിയേഷനുകൾ ഉജ്ജ്വലമായി നിലനിൽക്കുന്ന ഊർജ്ജവും അഭിനിവേശവും ആയിട്ടാണ് ഇത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്നു ഈ ആശയം തെളിയിക്കാൻ ചില ബ്രാൻഡ് നിറങ്ങൾ വിശകലനം ചെയ്ത റെബേക്ക ഗ്രോസിന്റെ വളരെ രസകരമായ ഒരു ലേഖനം ഞാൻ ഇവിടെ പരാമർശിക്കുന്നു കനേഡിയൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ശൈത്യകാല വസ്ത്രങ്ങൾ വിൽക്കുന്ന കോമ്പി എന്ന ബ്രാൻഡിനെ അവർ പരാമർശിച്ചു ചുവപ്പ് അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി അത് ഊഷ്മളതയും കനേഡിയൻ പതാകയുടെ നിറങ്ങളുമായുള്ള ബന്ധവും ഉളവാക്കുന്നു ചുവപ്പ് ഉപയോഗിച്ച സ്വീഡിഷ് ഡെമോക്രാറ്റിക് യൂത്ത് ലീഗിന്റെ സംബന്ധിച്ചിടത്തോളം റെഡ് റോളുകളുടെ പരമ്പരാഗത ചിഹ്നവുമാണ് സമാധാനത്തെ പ്രതിനിധീകരിക്കുന്നതിന് നീലയുടെ വിവിധ അസോസിയേഷനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എല്ലായ്പ്പോഴും ഈ അർത്ഥത്തിൽ ആകാശത്തിന്റെയോ കടലിന്റെയോ നീലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിക്ക രാജ്യങ്ങളിലും ഇത് പുല്ലിംഗ നിറമായിട്ടാണ് കാണപ്പെടുന്നത് നീലയെ അഭികാമ്യമല്ലാത്ത നിറമായി കണക്കാക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ നമ്മുടെ മനശാസ്ത്രത്തിൽ ചില നിറങ്ങൾക്ക് പോസിറ്റീവ് അസോസിയേഷനുകൾ ഉണ്ടായിരുന്നിട്ടും ഭാഷയിൽ അത് ഒരു നെഗറ്റീവ് അർത്ഥം ആശയവിനിമയം നടത്തുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും ഭാഷയിൽ നീല ഒരു വിഷാദ മനോഭാവം പ്രകടിപ്പിക്കുകയും വിഷാദം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും നീലയുടെ പോസിറ്റീവ് വശങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രമായും നീല നിറത്തിന്റെ വ്യത്യസ്ത ഷേഡുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ച ബ്രാൻഡുകളിലൊന്നാണ് വോ ഹിംഗ് ജനറൽ സ്റ്റോർ ഇത് ഇളം നീലയുമായി ലൈറ്റ് നീലയെ സംയോജിപ്പിക്കുന്ന സമ്പന്നമായ വിഷ്വൽ ഭാഷയെ സൃഷ്ടിക്കുന്നു ഏഷ്യയിലെ ശോഭയുള്ള ലൈറ്റുകൾക്ക് ഇത് ആദരാഞ്ജലി അർപ്പിക്കുന്നു അതേസമയം നോക്കാൻ കണ്ണുകള്ക്ക് ആശ്വാസം പകരുന്ന സ്ഥലവും അന്തരീക്ഷവും ചിത്രീകരിക്കുന്നു മറ്റൊരു ഉദാഹരണം ആശയവിനിമയത്തെയും നേതൃത്വത്തെയും കൈകാര്യം ചെയ്യുന്ന ലൈഫ് കോച്ചിംഗ് കമ്പനിയായ ചിത്രങ്ങളാണ് ഈ ലൈഫ് കോച്ചിംഗ് കമ്പനിയുടെ പരസ്യങ്ങളിലെ നീല നിർദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ വിശ്വാസ്യതയും പ്രൊഫഷണലിസവും ആണ് മാർക്കറ്റിംഗ് തന്ത്രത്തിൽ പച്ചയുടെ വ്യത്യസ്ത ഷേഡുകൾ ഉപയോഗിക്കുന്നു തിളക്കമുള്ളതും ഇളം പച്ച നിറവും വളർച്ച ഊർജ്ജസ്വലത പുതുക്കൽ എന്നിവ സൂചിപ്പിക്കുന്നു അതേസമയം പച്ചനിറത്തിൻറെ ഇരുണ്ട ഷേഡുകൾ സമ്പത്തും സമൃദ്ധിയും അന്തസ്സും പ്രതിനിധീകരിക്കുന്നു റെബേക്ക ഗ്രോസ് രണ്ട് ബ്രാൻഡുകളുടെ ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഊർജ്ജസ്വലമായ പച്ച ഉപയോഗിക്കുന്ന അൽബഹാക്ക റെസ്റ്റോറന്റിൻറെ ബിസിനസ്സ് കാർഡാണ് ഇത് പുതിയതും ആരോഗ്യകരവുമായ ഭക്ഷണം നിർദ്ദേശിക്കുന്ന റെസ്റ്റോറന്റിന്റെ നെയിംസേക്ക് ഹബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹെൽസിങ്കിയിലെ കൊക്കോറോയും മോയിയും ബന്ധപ്പെട്ടതാണ് അവർ പറഞ്ഞ മറ്റൊരു ഉദാഹരണം ഫ്ലൂറസെന്റ് പച്ച ഏഷ്യയിലെ രാത്രി വിപണികളിലെ നിയോൺ ലൈറ്റുകളെയും അത്തരം സാഹചര്യങ്ങളിൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന പുതിയതും പരീക്ഷണാത്മകവുമായ ഭക്ഷണത്തെയും കുറിച്ച് ആശയവിനിമയം നടത്തുന്നു ഒന്നിലധികം അസോസിയേഷനുകളുള്ള മറ്റൊരു നിറമാണ് കറുപ്പ് ഇത് എക്സ്ക്ലൂസിവിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറുവശത്ത് ഇത് ഒരു ശവസംസ്ക്കാര അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവ ദുഖം ഉളവാക്കുന്നു മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ പവർ എക്സ്ക്ലൂസിവിറ്റി സാങ്കേതിക കഴിവ് എന്നിവ നിർദ്ദേശിക്കുന്നതിനായി മെറ്റാലിക് ഗ്ലോസി ഷേഡുകൾ ഉപയോഗിക്കുന്നു ഇത് പലപ്പോഴും മറ്റ് ബോൾഡ് നിറങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് വൈറ്റ് വിശുദ്ധി നിഷ്കളങ്കത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒപ്പം ലാളിത്യം പരിശുദ്ധി സുതാര്യത എന്നിവയെക്കുറിച്ചുള്ള വ്യക്തിത്വമുള്ള ബ്രാൻഡുകളുടെ വിപണനത്തിനായി വിജയകരമായി ഉപയോഗിച്ചു നിറങ്ങൾക്ക് ചില ആചാരപരമായ അസോസിയേഷനുകളും ഉണ്ട് ഉദാഹരണത്തിന് ബ്രസീലിൽ ആളുകൾ പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ഷേഡുകൾ ധരിക്കുന്നത് ഒഴിവാക്കുന്നു കാരണം ഇവ ബ്രസീലിയൻ പതാകയുടെ നിറങ്ങളാണ് ബ്രസീലിലെ ആളുകൾ അവരുടെ ദൈനംദിന വസ്ത്രങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ രീതി അമേരിക്കൻ സമ്പ്രദായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അവിടെ ഏത് തരത്തിലുള്ള ഉൽപ്പന്നത്തിലും പതാകയുടെ നിറങ്ങൾ ഉപയോഗിക്കാൻ കഴിയും അതേസമയം നിറങ്ങൾക്ക് മതപരമായ പ്രതീകാത്മകതയുമുണ്ട് ഉദാഹരണത്തിന് സാഫ്രൻ ഹിന്ദുമതത്തിൽ പവിത്രമായി കണക്കാക്കപ്പെടുന്നു അതേസമയം പച്ച ഇസ്ലാമിൽ പവിത്രമായി കണക്കാക്കപ്പെടുന്നു പ്രൊഫഷണൽ ആശയവിനിമയത്തിന്റെ പശ്ചാത്തലത്തിൽ വർണ്ണത്തിന്റെയും മനശാസ്ത്രപരമായ പ്രവർത്തനത്തിന്റെയും വിശാലമായ മാതൃകയായ സന്ദർഭ സിദ്ധാന്തത്തിലെ നിറവും നാം നോക്കേണ്ടതുണ്ട് അത് നിറവും അതിന്റെ ഫലവും അറിവും പെരുമാറ്റവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നു ഈ സിദ്ധാന്തമനുസരിച്ച് ഒരു പ്രത്യേക നിറം വഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവിധതരം വിവരങ്ങൾ പ്രതീകാത്മകമായി അറിയിക്കാൻ കഴിയുന്ന ഒരു നോൺ ലെക്സിക്കൽ വിഷ്വൽ ഉത്തേജകമാണ് നിറം മനശാസ്ത്രപരമായ പ്രസക്തിയുള്ള വ്യത്യസ്ത അർത്ഥങ്ങളുമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രസക്തി നിറങ്ങളുടെ ആന്തരിക മൂല്യങ്ങൾക്കപ്പുറവും സുഖകരവും അസുഖകരവുമായ ലളിതവും ഉപരിപ്ലവവുമായ വിലയിരുത്തലുകൾക്കും അതീതമാണ് അവ പെട്ടെന്ന് തന്നെ യാന്ത്രികമായി പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ മസ്തിഷ്കത്തിന് കഴിയും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഈ വശത്തെക്കുറിച്ച് സംസാരിക്കുന്ന വളരെ രസകരമായ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ജോൺ ഗേജ് തുടങ്ങിയ മറ്റ് സൈദ്ധാന്തികരും ഒരു പ്രത്യേക നിറത്തിന്റെ അർത്ഥം സന്ദർഭത്തിൽ നിന്നോ അല്ലെങ്കിൽ അത് അഭിമുഖീകരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നോ വേർതിരിക്കാനാവില്ലെന്ന് അഭിപ്രായപ്പെടുന്നു ഒരു വർണ്ണത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ബാധിക്കുകയും അധിക ധാരണയും വിവരവും നൽകുകയും ചെയ്യുന്നത് സന്ദർഭമാണ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക നിറമുള്ള വസ്തുവിന്റെ ആകൃതിയും ഘടനയും ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഈ വസ്തുവിനെ സ്ഥാപിക്കുന്നതും ആ പ്രത്യേക വർണ്ണത്തിന്റെ അധിക വ്യാഖ്യാനങ്ങൾ നൽകുന്നു എന്നിരുന്നാലും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ നിറങ്ങൾ നമ്മുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തെ ബാധിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും രാവിലെ നിങ്ങൾ കണ്ണുതുറക്കുന്ന നിമിഷം നിങ്ങളുടെ തലച്ചോർ ഏഴ് ദശലക്ഷത്തിലധികം നിറങ്ങളാൽ നിറയുന്നു ചില നിറങ്ങൾ നിങ്ങൾക്ക് തലവേദന നൽകും നിറങ്ങളുടെ പിന്നിലുള്ള മനശാസ്ത്രം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തെ നേരിടാൻ നിങ്ങൾ കൂടുതൽ സജ്ജരാകും അടിസ്ഥാന നിറങ്ങളെക്കുറിച്ച് മനസിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച വിപണനക്കാരനാകാനും കൂടുതൽ വിൽപ്പന നടത്താനും കഴിയും ആളുകളെ സ്വാധീനിക്കുന്നതിനും സ്വയം കൂടുതൽ അനുനയിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് ചില നിറങ്ങളുടെ ശക്തി ഉപയോഗിക്കാം കളർ സൈക്കോളജിയെക്കുറിച്ചുള്ള അറിവ് മറ്റൊരു വ്യക്തിയുടെ കാറിന്റെ നിറം കൊണ്ട് അവരുടെ വ്യക്തിത്വം വായിക്കാൻ സഹായിക്കും 7 ദശലക്ഷം വ്യത്യസ്ത നിറങ്ങളിൽ നമ്മൾ ലോകത്തെ കാണുന്നുണ്ടെങ്കിലും നിറങ്ങൾ അവരുടെ മാനസികാവസ്ഥയെയും വാങ്ങൽ തീരുമാനങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും മിക്ക ആളുകൾക്കും ഇല്ല ചില വർണ്ണങ്ങൾ ധരിക്കുന്നതിലൂടെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതി ആളുകളിൽ ഉളവാക്കാൻ ഞാൻ നിങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് നാളെ ഒരു അഭിമുഖം ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾക്ക് ശരിക്കും ജോലി വേണം പക്ഷേ നിങ്ങളുടെ അഭിമുഖത്തിന് മുമ്പും ശേഷവും അപേക്ഷകരുടെ ഒരു നീണ്ട പട്ടികയുണ്ട് ഇപ്പോൾ നീല നിറം വിശ്വസ്തതയുമായും വിശ്വാസ്യതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ അഭിമുഖത്തിൽ നീലനിറം ധരിക്കുന്ന ലളിതമായ പ്രവർത്തനത്തിലൂടെ ജോലി നൽകുന്ന ആൾ അറിയാതെ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കും നിങ്ങൾക്ക് ഒരു പ്രധാന ബിസിനസ്സ് ഡീൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഇവന്റ് ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക നീല ധരിക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ വിശ്വാസയോഗ്യരാണെന്ന് തോന്നുകയും ബിസിനസ്സ് ഇടപാട് നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും ഒരു നിറത്തിലൂടെ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണിത് മറ്റൊരു പ്രധാന നിറം കറുപ്പാണ് അത് വളരെ ആവേശകരമായി തോന്നുന്നില്ലെങ്കിലും ഇത് നിരീക്ഷകനിൽ ശക്തമായ മാനസിക സ്വാധീനം ചെലുത്തുന്നു കറുപ്പ് നിറത്തിന് പിന്നിലെ മനശാസ്ത്രം അത് ശക്തിയും അധികാരവും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പറയുന്നു എന്നാൽ ഇത് നിങ്ങളെ ദുഷ്ടനോ തിന്മയോ ഉള്ള വ്യക്തിയായി ചിലപ്പോൾ കാണും അധികാരം കയ്യിലുള്ള പുരുഷനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ആകർഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ കറുത്ത വസ്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വാർഡ്രോബ് ഇഷ്ടാനുനുസൃതം നിറയ്ക്കാൻ മറക്കരുത് കറുപ്പിനും സ്ലിമ്മിംഗ് ഇഫക്റ്റുകൾ ഉണ്ട് ഇത് അമിതഭാരമുള്ളരെ മെലിഞ്ഞതായി കാണിക്കുന്നു അതിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു പ്രധാന നിറങ്ങളും അവയുടെ പിന്നിലുള്ള മനശാസ്ത്രവും നിങ്ങൾ മനസിലാക്കുന്നില്ല മറ്റൊരാളുടെ വ്യക്തിത്വം വായിക്കാൻ ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ മനശാസ്ത്രം ദീർഘകാലം പഠിച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള നിറങ്ങൾക്ക് അയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നേരിട്ടോ അല്ലാതെയോ ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും അവന്റെ ഉടമസ്ഥതയിലുള്ള കാറുകൾ വസ്ത്രങ്ങൾ ഗാഡ്ജെറ്റുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നിങ്ങൾ ഒരു ജിമ്മിൽ നടന്ന് ഇപ്പോൾ കയറുമ്പോൾ 15 വ്യത്യസ്ത ആളുകളെ കാണുന്നുവെന്ന് സങ്കൽപ്പിക്കുക എല്ലാവരും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും കൂടുതൽ ശക്തനും ആരോഗ്യമുള്ളവൻ ആകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ അറിവില്ലാതെ അവരുടെ ഐപോഡുകൾ റിസ്റ്റ്ബാൻഡുകൾ ഷൂകൾ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലുകൾ എന്നിവയുടെ നിറങ്ങളും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും പരിഗണിക്കില്ല അതിനാൽ ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങളുടെ ഉയർന്നുവരുന്ന മാനമായി ഇത് മനസ്സിലാക്കപ്പെടുന്നു ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്ന മറ്റൊരു വശം ഗന്ധം സുഗന്ധം എന്നിവയിലൂടെയുള്ള ആശയവിനിമയമാണ് ഓൾഫാക്റ്റിക്സ് ശരീരഭാഷയുടെ വളരെയധികം അവഗണിക്കപ്പെട്ടതും പഠിക്കാത്തതുമായ ഒരു വശമാണിത് അതിന്റെ പ്രാധാന്യം അടുത്തിടെ മാത്രമേ തിരിച്ച്റിഞ്ഞിട്ടുള്ളൂ നമ്മുടെ സാമൂഹിക പ്രവർത്തനത്തിൽ സുഗന്ധത്തിന് ഒരു പ്രത്യേക പങ്കുണ്ട് അതിന് മാനസിക പ്രാധാന്യവുമുണ്ട് തുടക്കത്തിൽ തന്നെ മനോഹരമായ ഗന്ധം ആകർഷിക്കാൻ സഹായിക്കുമെന്ന് നമുക്ക് പറയാം എന്നാൽ അസുഖകരമായവ മറ്റുള്ളവരെ നമ്മളിൽ നിന്നും അകറ്റുന്നു എന്നാൽ ഒരു പ്രത്യേക സുഗന്ധം സുഖകരമോ അസുഖകരമോ ആണെന്ന് നിർണ്ണയിക്കാൻ എളുപ്പമല്ല മെമ്മറിയുമായി ഒരു പ്രത്യേക വാസനയുടെ ബന്ധം എല്ലായ്പ്പോഴും ഉണ്ട് നമ്മുടെ പഴയ ഓർമ്മകൾ പലപ്പോഴും ചില വാസനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു പ്രത്യേക വാസന ആവർത്തിക്കുന്നത് നമ്മെ പഴയ കാലത്തേക്കു കൊണ്ടുപോകും അതേ സമയം മണം നിലവിൽ സംഭവിക്കുന്ന ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നമ്മൾ അത് മൊത്തത്തിൽ നമ്മുടെ മെമ്മറിയിൽ നിലനിർത്തുന്നു ഒരു വാസന മുന്നറിയിപ്പ് സംവിധാനമായി പ്രവർത്തിക്കും ചില സംസ്കാരങ്ങൾ മറ്റുള്ളവയേക്കാൾ ഗന്ധത്തിനു പ്രാധാന്യം നൽകുന്നു മിക്ക വികസിത രാജ്യങ്ങളിലും വാസനയുടെ ആസ്വാദനത്തിൻറെ കാര്യത്തിൽ സാംസ്കാരിക വ്യതിയാനങ്ങൾ നിലനിൽക്കുന്നു ശരീര ദുർഗന്ധവും വാസനയും ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നും അതിനാൽ കൃത്രിമമായി സൃഷ്ടിച്ച സെൻറ്റുകൾ കൊളോൺ ഡിയോ ആഫ്റ്റർഷേവ് തുടങ്ങിയവയുടെ ശക്തമായ വിപണി ഉണ്ട് ശരീരത്തിലെ സ്വാഭാവിക ദുർഗന്ധത്തെ അതിജീവിക്കാൻ ഇവ നമ്മളെ സഹായിക്കുന്നു ഇതിനു വിപരീതമായി അറബി രാജ്യങ്ങളിൽ ശരീര ദുർഗന്ധത്തെ നന്നായി അംഗീകരിക്കുന്നതായും അവ സ്വാഭാവിക ഭാഗമായി കണക്കാക്കപ്പെടുന്നതായും നമുക്ക് കാണാം വാസനയുടെ കാര്യത്തിൽ നമ്മുടെ മുൻഗണനകൾ സാർവ്വത്രികമല്ല അതിനാൽ നോൺ വെർബൽ കോഡുകളുടെ മറ്റ് വ്യാഖ്യാനങ്ങൾക്ക് സമാനമായി ഓൾഫാക്റ്റിക്സ് പരസ്പര സാംസ്കാരിക ആശയവിനിമയത്തെയും സ്വാധീനിക്കും മാത്രമല്ല മറ്റ് ആളുകളുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാനുള്ള നമ്മുടെ സന്നദ്ധതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ സ്വാഭാവിക ശരീര ദുർഗന്ധത്താൽ നമ്മുടെ സുഗന്ധം സ്വാധീനിക്കപ്പെടുന്നു നമ്മുടെ ശുചിത്വവും പെർഫ്യൂം അല്ലെങ്കിൽ ഡിയോയുടെ രൂപത്തിൽ ഒരു പ്രത്യേക മണം ഉപയോഗിക്കുന്നതും നമ്മുടെ ശീലങ്ങളെ സ്വാധീനിക്കുന്നു വിയർപ്പ് ഉളവാക്കുന്ന ചില പ്രവർത്തനങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നു ഇത് നമ്മുടെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നു കാരണം ചില രോഗങ്ങൾ ചില അസുഖങ്ങൾക്ക് ദുർഗന്ധം ഉണ്ട് പക്ഷേ ഒരു മണം ഒരു ജൈവശാസ്ത്രപരവും മാനസികവുമായ അനുഭവം മാത്രമല്ല ഇത് ഒരു സാമൂഹിക സാംസ്കാരിക പ്രതിഭാസമാണ് മാത്രമല്ല ഇത് നമ്മുടെ മുൻഗണനയെയും വെറുപ്പുകളെയും നിർണ്ണയിക്കുന്നു അതേ സമയം നമ്മുടെ സാമൂഹിക നിലപാടുകൾ സാമ്പത്തിക ക്ലാസ് പദവി ശക്തി എന്നിവയെക്കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകുന്നു ഉദാഹരണത്തിന് വിലയേറിയ പെർഫ്യൂം കൊളോൺ അല്ലെങ്കിൽ ആഫ്റ്റർഷേവ് ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത പദവിയെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു മറുവശത്ത് വിയർപ്പിന്റെ ശക്തമായ ദുർഗന്ധം ഒരു വ്യക്തി ഒരുപക്ഷേ താഴ്ന്ന സാമ്പത്തിക നിലയിൽ നിന്നുള്ള ആളാണെന്നും ധാരാളം അധ്വാനത്തിൽ ഏർപ്പെടേണ്ടതുണ്ടെന്നും സൂചിപ്പിക്കുന്നു നല്ലൊരു നോൺ വെർബൽ മതിപ്പ് സൃഷ്ടിക്കാൻ ഒരു മണം ഫലപ്രദമായി ഉപയോഗിക്കാം ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പോസിറ്റീവ് മണം മറ്റ് ആളുകളിൽ ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കും സുഗന്ധങ്ങൾ സൌന്ദര്യാത്മകമായി മനോഹരമാക്കുന്ന പാശ്ചാത്യ സങ്കൽപ്പങ്ങൾ സാർവത്രികമല്ല എന്നത് ശ്രദ്ധേയമാണ് ഈ സന്ദർഭത്തിൽ വളരെ രസകരമായ ചില ശീലങ്ങളും മുൻഗണനകളും ഗവേഷകർ ചൂണ്ടിക്കാട്ടി എത്യോപ്യയിലെ ഒരു പ്രത്യേക വിഭാഗം കന്നുകാലികളെ വളർത്തുന്നു പശുക്കളുടെ ദുർഗന്ധത്തേക്കാൾ ആകർഷകമായ ഒരു സുഗന്ധമില്ലെന്ന് അവർ കരുതുന്നു മാലിയിലെ ഡോഗോണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിയുടെ സുഗന്ധം ഏറ്റവും ആകർഷകമായ സുഗന്ധവും വറുത്ത ഉള്ളിയുടെ ഗന്ധവും ശരീരത്തിൽ വളരെ അഭികാമ്യമായ സുഗന്ധദ്രവ്യമാണ് ആഫ്രിക്കൻ ബുഷ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ സുഗന്ധം മഴയുടേതാണ് പാശ്ചാത്യ അഭിരുചിക്കു വ്യക്തമായി സൂക്ഷ്മതയില്ലെന്ന് അവർ കരുതുന്നു സുഗന്ധങ്ങളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം അറബി സംസ്കാരങ്ങൾക്ക് വളരെ സങ്കീർണ്ണമായ സൌന്ദര്യശാസ്ത്രമുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സുഗന്ധമാക്കുന്നതിന് സ്ത്രീകൾ വൈവിധ്യമാർന്ന സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നു എന്നാൽ ഈ സുഗന്ധദ്രവ്യങ്ങൾ മറ്റ് സ്ത്രീകളുടെയോ അടുത്ത കുടുംബാംഗങ്ങളുടെയോ സ്വകാര്യ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് പരസ്യമായോ പുരുഷന്മാരുടെ കൂട്ടായ്മയിലോ പെർഫ്യൂം ധരിക്കുന്നത് വ്യഭിചാര മോഡലുകളുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഫ്രഞ്ച് ക്ലിനിക്കൽ ന്യൂറോ സൈക്കോളജിസ്റ്റായ ഈ വശം വളരെ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു സുഗന്ധം മണക്കുന്നത് പോലുള്ള അടിസ്ഥാന പ്രക്രിയകൾ പോലും നമ്മൾ എവിടെ നിന്ന് വരുന്നുവെന്നും നമുക്ക് എന്ത് അറിയാം എന്നതിനെയും സ്വാധീനിക്കുന്നുവെന്ന് അവർ പറഞ്ഞു വ്യക്തിപരമായ ദുർഗന്ധത്തിന്റെ സങ്കീർണതകൾ മറ്റ് പല സംസ്കാരങ്ങളിലും സങ്കീർണ്ണമായ വർഗ്ഗീകരണ സംവിധാനങ്ങളുടെ വിഷയമാണ് ഒരു വ്യക്തിയുടെ അതുല്യമായ ദുർഗന്ധം വ്യത്യസ്ത ഗന്ധങ്ങളുടെ സംയോജനമാണെന്ന് ആമസോണിയൻ ദേശാന കമ്മ്യൂണിറ്റിയിലെ അംഗം വിശദീകരിക്കുമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അവർ ഉപയോഗിക്കുന്ന പദം ഒമാ സെരിരി കഴിയും വ്യവസായങ്ങൾ നമ്മുടെ വാസനയുടെയും ദുർഗന്ധത്തിന്റെയും മുൻതൂക്കത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിവിധതരം സുഗന്ധദ്രവ്യങ്ങൾ കൊളോണുകൾ സ്പ്രേകൾ എന്നിവയ്ക്കുള്ള മാർക്കറ്റിലേക്ക് നമുക്ക് നോക്കാം അത് നമ്മുടെ വീടുകളിൽ ശുചിത്വവൽക്കരിക്കാനും സുഗന്ധം സൃഷ്ടിക്കാനും ഉപയോഗിക്കുന്നു ജപ്പാനിൽ പ്രത്യേകിച്ച് സുഗന്ധം ജോലിസ്ഥലത്തും ഉപയോഗിക്കുന്നു വാസ്തുവിദ്യാ നിർമാണ സ്ഥാപനമായ ഷിമിസു എയർ കണ്ടീഷനിംഗ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലൂടെ അവിടുത്തെ ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സമ്മർദ്ദ നില കുറയ്ക്കാനും കഴിയും വാസന പ്രധാനമാണെന്ന് പരസ്യദാതാക്കൾ വിശ്വസിക്കുന്നു ബ്രിട്ടീഷ് സ്റ്റോറുകൾ ഉപഭോക്താക്കളെ സന്തോഷകരവും പോസിറ്റീവുമായ ഒരു ഫ്രെയിമിൽ ഉൾപ്പെടുത്തുന്നതിന് എയർ കണ്ടീഷനിംഗ് സിസ്റ്റങ്ങളിൽ പുതുതായി ഉണങ്ങിയ ലിനൻ ചോക്ലേറ്റ് അല്ലെങ്കിൽ കസ്തൂരി പോലുള്ള പ്രകൃതിദത്ത വാസന ഉപയോഗിക്കുന്നു അതിനാൽ ഒരു വാസനയ്ക്ക് വ്യാപാരസംബന്ധമായ സാന്നിധ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ ശാരീരിക രൂപത്തെക്കുറിച്ചും കലാസൃഷ്ടികളെക്കുറിച്ചും ഉള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു ഇവ സന്ദേശങ്ങൾ കൈമാറുന്നു നമ്മുടെ ശരീരഭാഷയും രൂപവും ഒരുപാട് വെളിപ്പെടുത്തുന്നു മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കുന്നതിനുമുമ്പ് നമ്മിൽ മിക്കവരും മറ്റൊരാളുടെ ശാരീരിക രൂപവും ശരീരഭാഷയും ശ്രദ്ധിക്കുകയും നമ്മുടെ പ്രാഥമിക പരിഗണനകൾ പലപ്പോഴും ഈ രണ്ട് വശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് നിർദ്ദിഷ്ട വസ്ത്രവും ഉചിതമായ ആക്സസറികളും നിർദ്ദിഷ്ടവും ടാർഗെറ്റുചെയ്തതുമായ ഫലങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കുന്നു ചില സന്ദേശങ്ങൾ ആഴത്തിലുള്ള രീതിയിൽ കൈമാറാനും കാഴ്ചക്കാരിൽ ഒരു പ്രത്യേക മതിപ്പ് സൃഷ്ടിക്കാനും അവ നമ്മളെ സഹായിക്കുന്നു അതേസമയം ഈ സന്ദർഭത്തിലെ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ സാമൂഹിക സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നിരുന്നാലും ഈ ആശയം ബിസിനസ്സിനും പ്രൊഫഷണൽ ലോകത്തിനും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു ശാരീരിക രൂപത്തിലും കലാസൃഷ്ടികളുടെ ഉപയോഗത്തിലും വരെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് അവരുടേതായ മുൻഗണനകളുണ്ടെന്ന് കാണാൻ കഴിയും സോക്കർ കളിക്കാരുടെയോ ബൈക്ക് യാത്രക്കാരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ ഹെയർ ഡൂ ഡ്രസ് കോഡ് ആക്സസറികൾ എന്നിവ താരതമ്യം ചെയ്തുനോക്കിയാൽ നമ്മുടെ ശാരീരിക രൂപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു പ്രത്യേക തരം വ്യക്തിത്വം സൃഷ്ടിക്കുന്നതിൽ കരകൌശല വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചും പറയാൻ കഴിയും ഈ പ്രശ്നങ്ങൾ പരമ്പരാഗതമായി എത്നോളജിസ്റ്റും പഠിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവ പരസ്പര സാംസ്കാരിക ബിസിനസ് ആശയവിനിമയങ്ങളിലും പഠിക്കുന്നു ഈ പഠനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാന കാരണം നമ്മുടെ ആക്സസറികൾ നമ്മുടെ ആത്മാഭിമാനത്തെ പ്രതീകപ്പെടുത്തുന്നു എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന സെൽഫോൺ കവർ നമ്മുടെ വാലറ്റ് നമ്മുടെ കൈവശമുള്ള സൺഗ്ലാസുകൾ ടാറ്റൂകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതോ അല്ലാത്തതോ ആയ ആശയവിനിമയങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ നമ്മുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവ നമ്മുടെ ലിംഗഭേദം സ്ഥാനം പദവി വ്യക്തിത്വം ഒരു പ്രത്യേക ഗ്രൂപ്പുമായോ ഒരു പ്രത്യേക വിഭാഗവുമായോ ഉള്ള ബന്ധം എന്നിവ പ്രോജക്ട് ചെയ്യുന്നു പൊതുവേ ആക്സസറികൾ വൃത്തിയുള്ളതും നല്ല രൂപത്തിലുള്ളതുമായിരിക്കണം പൊളിഞ്ഞുപോയ ബെൽറ്റ് സ്കഫ് ചെയ്ത ഷൂകളും ബ്രീഫ്കെയ്സും വൃത്തിഹീനമായി തോന്നുക മാത്രമല്ല അവരെ പരിപാലിക്കാൻ മെനക്കെടാത്ത ഒരു വ്യക്തിത്വത്തെ ഇവ സൂചിപ്പിക്കുന്നു അതിനാൽ അവർ കാര്യങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ശരിയായി പരിപാലിക്കുക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയും ഇത് മടിയനും ശല്യപ്പെടുത്താത്തവനുമായ ഒരു വ്യക്തിയുടെ സൂചനയായി എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാം അതിനാൽ ശാരീരിക രൂപവും ആക്സസറികളുടെ ഉപയോഗവും നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ മറ്റ് ആളുകളെ പ്രാപ്തമാക്കുന്നു എന്നിരുന്നാലും നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാന ഘടകം ഒരു പരിതസ്ഥിതിയിൽ ഉചിതമായിരിക്കണം പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആശയവിനിമയം നടക്കുന്ന സാഹചര്യവും സ്ഥലവുമാണ് ഇതിന് വ്യത്യസ്ത സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് ഒരു നിശ്ചിത അവബോധം ആവശ്യമാണ് അതിനോടുള്ള നമ്മുടെ സംവേദനക്ഷമതയും ഈ വ്യത്യാസങ്ങൾ മുൻകൂട്ടി കാണാനും അവയ്ക്കായി ആസൂത്രണം ചെയ്യാനും അനുഭാവപൂർണ്ണമായ ആസൂത്രണം ആവശ്യമാണ് ആക്സസറികൾക്ക് അവരുടേതായ ഭാഷയുണ്ട് തുണിത്തരങ്ങൾക്കും അവരുടേതായ ഭാഷയുണ്ട് ഉദാഹരണത്തിന് കാഷ്മീറും കോട്ടണും സൂചിപ്പിക്കുന്നത് ധരിക്കുന്നയാൾ അത്യാധുനികനാണെന്നും വ്യക്തി കുറച്ച് സമ്പന്നൻ ആണ് എന്നുമാണ് ലെതർ തുടങ്ങിയവ പോലുള്ള ഹാർഡ് മെറ്റീരിയലുകൾ ഒരു നിശ്ചയദാർഢ്യം നിർദ്ദേശിക്കുന്നു അത് ചില തൊഴിലുകളിൽ സ്വാഗതാർഹമല്ല നമ്മൾ ധരിക്കുന്ന ഷൂകളുടെ തരം ഒരു പ്രത്യേക രാഷ്ട്രീയം ഒരു പ്രത്യേക പദവി പ്രായം ഫാഷൻ സെൻസ് എന്നിവയും സൂചിപ്പിക്കുന്നു ഒരു പ്രൊഫഷണൽ വസ്ത്രധാരണവും രൂപഭാവവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ആളുകൾക്ക് വിശാലമായ വീക്ഷണം നൽകുകയും ചെയ്യുന്നുവെന്നും ഒരു പഠനം സൂചിപ്പിക്കുന്നു ശരീരഭാഷയുടെ പരിധിയിൽ വന്ന മറ്റൊരു വശം ടാറ്റൂകളെക്കുറിച്ചുള്ള പഠനമാണ് ടാറ്റൂകൾ ശരീരഭാഷയുടെ ഒരു പ്രത്യേക രൂപത്തെ പ്രതിനിധീകരിക്കുന്നു അവ നമ്മുടെ ശരീരത്തിന് സ്ഥിരമായ ഒരു അലങ്കാരം പോലെയാണ് അത് എളുപ്പത്തിൽ നീക്കംചെയ്യാൻ കഴിയില്ല അതിനാൽ അവരെ പലപ്പോഴും സ്വയം ബ്രാൻഡിംഗ് എന്ന് വിളിക്കുന്നു സംസാരിക്കുന്ന ഒരു അടയാളം പക്ഷേ എളുപ്പത്തിൽ മറുപടി നൽകാൻ കഴിയില്ല ടാറ്റൂകളിലൂടെ അവർ ഉറപ്പിച്ചുപറയുന്നു ഈ വാദം നമ്മുടെ മാംസത്തിൽ മരവിച്ചിരിക്കുന്നു ഫാഷനും ഫാഷൻ വിരുദ്ധതയും തമ്മിൽ ഒരു വ്യത്യാസം കണ്ടെത്തേണ്ടതുണ്ടെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അവരുടെ അഭിപ്രായത്തിൽ നിരന്തരമായതും ചിട്ടയായതുമായ മാറ്റമാണ് ഫാഷന്റെ സവിശേഷത മറുവശത്ത് ഒരു ആന്റി ഫാഷൻ താരതമ്യേന യാഥാസ്ഥിതികവും മാറ്റത്തെ വളരെ പ്രതിരോധിക്കുന്നതുമാണ് ടാറ്റൂകൾ സാധാരണയായി ആന്റി ഫാഷൻ വിഭാഗത്തിൽ വരുന്നു അവ സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെയും സ്ഥിരതയുടെയും ഒരു മിഥ്യ സൃഷ്ടിക്കുന്നു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഫലപ്രദമായ ആശയവിനിമയത്തിന് സന്ദർഭത്തിന്റെ അംഗീകാരം ആവശ്യമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു നമ്മൾ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് അത് സ്വീകരിക്കുന്നവർ ആരാണ് അവയിൽ ഏത് തരത്തിലുള്ള പ്രഭാവം സൃഷ്ടിക്കും എന്നത് പ്രധാനമാണ് നമ്മുടെ മഹാനായ നേതാവിനെ നമ്മുടെ രാജ്യത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയെ അർദ്ധ നഗ്നനായ ഫക്കീർ എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും പരിഹസിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഈ രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നുവെന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുമായി വൈകാരിക അടുപ്പമുണ്ടെന്നും അദ്ദേഹം അവരെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിച്ചുവെന്നും സൂചിപ്പിക്കുന്നു ഒരു പ്രത്യേക സന്ദർഭത്തിനായി ആളുകൾക്ക് ഉള്ള ഈ സഹാനുഭൂതി മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയൊരു ഫാഷൻ സെൻസും ഉണ്ടാകില്ല ശരീരഭാഷയുടെ ഈ വശങ്ങളെക്കുറിച്ചുള്ള എന്റെ ചർച്ച ഈ ഘട്ടത്തിൽ അവസാനിപ്പിക്കുകയാണ് അടുത്ത മൊഡ്യൂളിൽ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ഉയർന്നുവരുന്ന മറ്റ് ചില വശങ്ങൾ നമ്മൾ നോക്കും